ഹായ് ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂൾ നമ്മളുടെ ക്ലാസ് 12 ന്റെ അവസാന മോഡലാണ് അത് ഓസിലേറ്ററുകളും ശബ്ദവും ആണ് അതിനാൽ എന്താണ് ഓസിലേറ്ററുകൾ എന്ന് നമ്മൾ ഇതുവരെ കണ്ടു എന്താണ് ഓസിലേറ്ററുകൾ ഓസിലേറ്ററുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാം തുടർന്ന് നമ്മൾ ശബ്ദത്തിലേക്ക് നീങ്ങും ഈ പ്രത്യേക കോഴ്സിനായുള്ള അവസാനത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ഡാറ്റ ഷീറ്റ് കാണും ഒടുവിൽ നമുക്ക് ഒരു തിരിച്ചുവിളിക്കൽ പ്രഭാഷണവും തുടർന്ന് ചില പരീക്ഷണങ്ങളും ഉണ്ടാകും അതിനാൽ ഓസിലേറ്ററുകൾ എന്താണെന്ന് നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഓസിലേറ്ററുകൾക്ക് ബാർഖൌസെൻ മാനദണ്ഡം എന്ന് വിളിക്കുന്ന രണ്ട് കാര്യങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾക്കറിയാം ആദ്യത്തേത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലൂടെ ഓസിലേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് തിരികെ നൽകുന്ന output വോൾട്ടേജിന്റെ ഘട്ടം മാറ്റം 00 ആയിരിക്കണം അതായത് ഇൻപുട്ട് സിഗ്നൽ 0 ഡിഗ്രി എങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴിയുള്ള ഇൻപുട്ടിന് ഫീഡ്ബാക്ക് നൽകുന്ന output സിഗ്നലും 0 ഡിഗ്രിയിൽ ആയിരിക്കണം രണ്ടാമത്തെ വ്യവസ്ഥ ബീറ്റയിലേക്കുള്ള മോഡിന്റെ A 1 നെക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം എന്നതാണ് എന്താണ് A അത് നിങ്ങളുടെ നേട്ടം ആണ് ബീറ്റ നിങ്ങളുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ശരിയാണ് അതിനാൽ ഇത് ഉപയോഗിച്ച് നമ്മൾ R C എന്നിവ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ കുറഞ്ഞ ആവൃത്തിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓസിലേറ്ററുകൾ രൂപകൽപ്പന ചെയ്യാൻ നമ്മൾക്ക് കഴിയും റിയാക്ടൻസ് അല്ലെങ്കിൽ റിയാക്ടീവ് ഘടകങ്ങളായി ഇൻഡക്റ്ററും കപ്പാസിറ്റൻസും ഉള്ള L C എന്നിവ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഉയർന്ന ആവൃത്തിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഓസിലേറ്ററുകൾ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഇതാണ് നമ്മൾ കണ്ടത് ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയുള്ള ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ ഉപയോഗിക്കാമെന്നും നമ്മൾ കണ്ടു ഈ സ്ഥിരത ഘടകം ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നമ്മൾ കണ്ടു നമ്മൾ ശരിയായി കണ്ട ഹാർട്ട്ലി ഓസിലേറ്റർ നമ്മൾ കണ്ട ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ യുജെടി ഓസിലേറ്ററുകൾ അതിന്റെ characteristic curve എന്നിവ നിങ്ങൾ വേഗത്തിൽ ഓർമ്മിക്കുക ഇപ്പോൾ എന്താണ് ശബ്ദം അതിനാൽ ശബ്ദത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഒരു വൈദ്യുത സിഗ്നലിലെ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ശബ്ദം വളരെയധികം വ്യത്യാസപ്പെടുന്നു കാരണം ഇത് നിരവധി വ്യത്യസ്ത ഇഫക്റ്റുകൾ ഉൽപാദിപ്പിക്കും ഒരു ഇലക്ട്രോണിക് രൂപകൽപ്പനയിൽ പരിഗണിക്കേണ്ട അടിസ്ഥാന പാരാമീറ്ററിലെ ശബ്ദം ഇത് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ പരിമിതപ്പെടുത്തുന്നു അതിനാൽ എനിക്ക് സിഗ്നൽ വികലമുണ്ടെങ്കിൽ അത് വൈദ്യുത സിഗ്നലിന്റെ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിൽ കാരണമാകാം ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ ഈ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിൽ നിങ്ങൾ വിളിക്കുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല ഈ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലിനെ ശബ്ദം എന്ന് വിളിക്കുന്നു വ്യത്യസ്ത ഇഫക്റ്റുകൾ ഉപയോഗിച്ച് ഇത് നിർമ്മിക്കാൻ കഴിയും അത് അടുത്ത സ്ലൈഡിൽ നിരവധി ഇഫക്റ്റുകൾ എന്താണെന്നോ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ ഉണ്ടാകാവുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ എന്താണെന്നോ നമുക്ക് കാണാം ഇത് പരിഗണിക്കേണ്ട ഒരു അടിസ്ഥാന പാരാമീറ്ററാണ് കാരണം ശുദ്ധമായ സിഗ്നൽ ശരിയായി ലഭിക്കുന്നതിന് നമ്മൾ ഈ ശബ്ദം നീക്കംചെയ്യേണ്ടതുണ്ട് സിഗ്നലിലെ അനാവശ്യ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ നീക്കംചെയ്യണം അതുവഴി ആവശ്യമുള്ള സിഗ്നൽ നിലനിർത്താൻ കഴിയും പൊതുവേ ശബ്ദം നിരവധി ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങൾ ഇവിടെ കാണുന്നത് ചോപ്പർ ഒരു കാറിന്റെ ശബ്ദം സൈറൺ ഗിത്താർ റേഡിയോ ആംബുലൻസ് റേസിംഗ് കാർ കൂടാതെ എന്തും നിങ്ങൾ ഇവിടെ കാണുന്നു ഇത് ശബ്ദ മലിനീകരണത്തിന് വേണ്ടിയുള്ള അനാവശ്യ സിഗ്നലാണ് ഇത് ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നു അതുപോലെ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ശബ്ദം മറ്റൊരാൾക്ക് വിനോദമാകില്ല വളരെ മനോഹരമായ ഇമേജായ ഈ പ്രത്യേക ഇമേജുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് റെഗുലേറ്ററുകളിലെ ഡോട്ട് കോം സംരംഭങ്ങളിൽ നിന്നുള്ളതാണ് ഈ പ്രത്യേക റേഡിയോ വലതുഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഈ വ്യക്തിക്ക് ഒരു സംഗീതമാണ് അതേസമയം ഈ സ്ത്രീകൾക്ക് ഇത് ഒരു ശബ്ദമാണ് അതിനാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾ കാണുകയും ശബ്ദിക്കുകയും ചെയ്യുന്നതിനെ കോമിക്ക് രീതിയിൽ അതായത് മറ്റൊരു രീതിയിൽ നിർവചിക്കാം പക്ഷേ നമ്മൾ ഇലക്ട്രോണിക്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കേവലം ഒരു ശബ്ദത്തെക്കുറിച്ചല്ല വൈദ്യുത സിഗ്നലുകളിൽ അടങ്ങിയിരിക്കുന്ന ശബ്ദത്തെക്കുറിച്ചാണ് അതിനാൽ ഇത് ചില ശബ്ദമല്ല ഇത് ഹോൺ ശബ്ദമോ അല്ലെങ്കിൽ ചോപ്പർ ശബ്ദമോ അല്ലെങ്കിൽ ചില ശബ്ദമുള്ളതോ അല്ലെങ്കിൽ ചില ഉച്ചഭാഷിണി അല്ലെങ്കിൽ വളരെ ഉച്ചത്തിലുള്ള സംഗീതമോ അല്ല എന്നാൽ ഇവ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ശബ്ദങ്ങളാണ് ഇത് ഒരു ശബ്ദമാകുമ്പോൾ എനിക്ക് ചുറ്റും 100 ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സിഗ്നൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു സിഗ്നൽ അവകാശമാണെന്ന് കരുതുക എനിക്ക് ചുറ്റും 100 ആളുകൾ സംസാരിക്കുന്നുണ്ട് അതിനാൽ 100 ആളുകൾ സംസാരിക്കുന്നത് ഒരു ശബ്ദമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ നിന്ന് സിഗ്നലുകൾ വീണ്ടെടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് സിഗ്നൽ ആണു അപ്പോൾ നിങ്ങൾ ശബ്ദത്തിൽ നിന്ന് ഈ സിഗ്നൽ വീണ്ടെടുക്കണം അതിനർത്ഥം നിങ്ങൾ ഈ ശബ്ദം ഫിൽട്ടർ ചെയ്യുകയും സിഗ്നൽ മാത്രം വീണ്ടെടുക്കുകയും വേണം അതുവഴി നിങ്ങൾക്ക് വ്യക്തമായി എല്ലാം കേൾക്കാൻ കഴിയും ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അതിനാൽ നമ്മൾ മുമ്പ് കണ്ടത് നിങ്ങൾ ഓർമിക്കുന്നുവെങ്കിൽ നമ്മൾ സിഗ്നൽ ശബ്ദ അനുപാതം കണ്ടു നമ്മൾ പറഞ്ഞ വിഷയം CMRR റൈറ്റ് ആയിരുന്നു എന്താണ് CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ് CMRR ഉയർന്ന സിഎംആർആർ മികച്ച പ്രകടന സിഗ്നൽ തരും കൂടാതെ ശബ്ദ അനുപാതത്തിലേക്ക് ഉയർന്ന സിഗ്നൽ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ പ്രകടനം എന്നിവ എല്ലാം മികച്ചതാക്കുന്നു ശരിയാണ് അതിനാൽ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് ശബ്ദം നിർവചിക്കണമെങ്കിൽ ശബ്ദം ഒരു വൈദ്യുത സിഗ്നലിലെ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇലക്ട്രിക്കൽ സിഗ്നലിൽ ഏത് തരത്തിലുള്ള ശബ്ദമാണ് ഉള്ളതെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ സ്ലൈഡ് കാണുകയാണെങ്കിൽ ശബ്ദം പൂർണ്ണമായും റാൻഡം സിഗ്നലാണെന്ന് നിങ്ങൾ കാണുന്നു തൽക്ഷണ മൂല്യം അല്ലെങ്കിൽ തരംഗരൂപത്തിന്റെ ഒരു ഘട്ടം എപ്പോൾ വേണമെങ്കിലും പ്രവചിക്കാൻ കഴിയില്ല എന്താണ് ബാഹ്യ ആന്തരിക ശബ്ദം നിങ്ങൾ ബാഹ്യ ശബ്ദം ആന്തരിക ശബ്ദം കാണുന്നു അതിനാൽ ഒന്നുകിൽ അനുബന്ധ നിഷ്ക്രിയ ഘടകങ്ങളിൽ നിന്ന് ഒപ് ആമ്പിൽ മുകളിൽ ആന്തരികമായി ശബ്ദം സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ ബാഹ്യ സ്രോതസ്സുകൾ ഉപയോഗിച്ചുള്ള സർക്യൂട്ട് വഴി സൂപ്പർ impose ചെയ്തു അതിനാൽ പ്രവർത്തന ആംപ്ലിഫയറിലെ റെസിസ്റ്റീവ് ഘടകങ്ങൾ ഉപയോഗിച്ച് ശബ്ദം സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ ബാഹ്യ ഉറവിടങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത തരം സർക്യൂട്ടിനെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് സൂപ്പർഇമ്പോസ് ചെയ്യാനാകും സർക്യൂട്ടിൽ പ്രയോഗിക്കുന്ന സിഗ്നലിലുള്ള ശബ്ദത്തെ അല്ലെങ്കിൽ സിസ്റ്റം ഗ്രൌണ്ടിൽ നടത്തിയ അല്ലെങ്കിൽ സിസ്റ്റത്തിലെ അവശിഷ്ടങ്ങളിൽ നിന്നും ഘടകങ്ങളിൽ നിന്നും നിരവധി ആന്റിനകൾ സ്വീകരിച്ചതുപോലുള്ള ശബ്ദത്തെ അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗത്തിലൂടെ സർക്യൂട്ടിൽ അവതരിപ്പിച്ച ശബ്ദത്തെ external എന്നു സൂചിപ്പിക്കുന്നു ഈ ശബ്ദത്തെ സൂചിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം ദുഷ്കരമാക്കരുത് അതിനാൽ ഈ സർക്യൂട്ട് ശരിയാണെന്ന് നമ്മൾക്ക് പറയാം നിങ്ങൾക്ക് ഈ ഓപ് ആമ്പ് അധിഷ്ഠിത സർക്യൂട്ട് ഉണ്ട് നിങ്ങൾ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് ഒരു സിഗ്നൽ അവതരിപ്പിക്കുന്നു ഈ ബാഹ്യ ഉറവിടത്തിൽ നിന്ന് ജനറേറ്റുചെയ്യുന്ന ഈ സിഗ്നൽ ഈ സർക്യൂട്ടിൽ ഒരു ശബ്ദം അവതരിപ്പിച്ചേക്കാം അനുബന്ധ നിഷ്ക്രിയ ഘടകങ്ങളാൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ശബ്ദം ഓപ് ആമ്പിൽ തന്നെ ഉണ്ട് പക്ഷേ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ബാഹ്യ ശബ്ദത്തിനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അത് ഒപ് ആമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നാം മനസിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ആന്തരിക ശബ്ദ തരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിരവധി തരം ആന്തരിക ശബ്ദങ്ങളുണ്ട് നിർവചനം നമ്മൾ മനസിലാക്കും ശബ്ദം മനസിലാക്കാൻ നമ്മൾ ഒരു ഉദാഹരണം കാണും ആന്തരിക ശബ്ദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താപ ശബ്ദം ഹ്രസ്വ ശബ്ദം ഫ്ലിക്കർ ശബ്ദം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഹിമപാത ശബ്ദം എന്നിവയുണ്ട് അതിനാൽ ഈ ശബ്ദങ്ങളിൽ ചിലത് അല്ലെങ്കിൽ എല്ലാം രൂപകൽപ്പനയിൽ ഉണ്ടായിരിക്കാം ഇത് സിസ്റ്റത്തിന് ഒരു ശബ്ദ ഘടകം അർത്ഥമാക്കുന്നു മിക്ക കേസുകളും ഇഫക്റ്റുകൾ വേർതിരിക്കുന്നത് സാധ്യമല്ല പക്ഷേ പൊതുവായ കാരണങ്ങൾ അറിയുന്നത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ഡിസൈനറെ സഹായിക്കും താൽപ്പര്യത്തിന്റെ പ്രത്യേക ബാൻഡ്വിഡ്ത്ത് ബാൻഡ്വിഡ്ത്ത് ഓഫ് ഇൻററസ്റ്റ് എന്നിവയിൽ ശബ്ദം കുറയ്ക്കുന്നു അതിനാൽ ഈ ശബ്ദങ്ങളെല്ലാം സിസ്റ്റത്തിൽ ഉണ്ടാവാം കൂടാതെ സിസ്റ്റത്തിൽ ശബ്ദത്തിന്റെ പ്രഭാവം വേർതിരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന പ്രഭാവം നീക്കംചെയ്യാൻ കഴിഞ്ഞേക്കില്ല കുറഞ്ഞത് band of interestലെങ്കിലും സിസ്റ്റത്തിൽ ഉണ്ടാകാനിടയുള്ള ശബ്ദങ്ങളാണിവയെന്ന് നമുക്കറിയാം നമ്മൾ ഫിൽട്ടറുകൾ കണ്ടു ഇത് ബാൻഡ് പാസ് ഫിൽട്ടറാണെന്ന് പറയട്ടെ അതുപോലെതന്നെ ഇതു നമ്മളുടെ band of interest ആണെന്നും പറയാം അതിനാൽ കുറഞ്ഞത് ഈ പ്രത്യേക ബാൻഡിലെങ്കിലും ശബ്ദം ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഡിസൈൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമ്മൾക്ക് കഴിയും ഇത് വീണ്ടും ഒരു ഉദാഹരണമാണ് കുറഞ്ഞത് ഡിസൈനറെ കുറയ്ക്കുക ആരാണ് സർക്യൂട്ട് ഡിസൈനർ അയാൾക്ക് ശബ്ദം കുറയ്ക്കുന്ന തരത്തിലുള്ള ഡിസൈൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും അതിനാൽ ശബ്ദങ്ങളുടെ തരം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ശബ്ദം താപ ശബ്ദമാണ് വൈദ്യുതചാലകത്തിനുള്ളിലെ ഇലക്ട്രോണുകളുടെ ചാർജ് കാരിയറുകളുടെ ക്രമരഹിതമായ താപ ചലനമാണ് ഈ ശബ്ദം സൃഷ്ടിക്കുന്നത് ഏതൊരു പ്രയോഗ വോൾട്ടേജും പരിഗണിക്കാതെ ഇത് സംഭവിക്കുന്നു അതായത് നിങ്ങൾ ചലനം കേവലം പൂജ്യമാണെന്ന് കാണുന്നു ചെറിയ ചൂടാക്കൽ ഇലക്ട്രോണുകളുടെ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലിന് അല്ലെങ്കിൽ ചലനത്തിന് കാരണമാകും ഞാൻ കൂടുതൽ താപം പ്രയോഗിച്ചാൽ അത് കൂടുതൽ ക്രമരഹിതമായിത്തീരുന്നു അതിനാൽ ഇലക്ട്രോണിന്റെ ഈ ക്രമരഹിതമായ ചലനം അല്ലെങ്കിൽ ചാർജുകൾ കാരണം ഒരു ശബ്ദമുണ്ടാക്കും ഇപ്പോൾ വൈദ്യുതി സാന്ദ്രത വെളുത്ത ശബ്ദത്തിന് ആവൃത്തി സ്പെക്ട്രത്തിന് തുല്യമാണ് താപ ശബ്ദം മൂലമുള്ള ആർഎംഎസ് വോൾട്ടേജ് ബാൻഡ്വിഡ്ത്ത് ഡെൽറ്റ എഫിന് മുകളിലൂടെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു നിങ്ങൾ മനസിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ സമവാക്യം ഓർമിക്കണം നമ്മൾ ഈ സമവാക്യം ഉരുത്തിരിഞ്ഞതല്ല പക്ഷേ അവസാനം നിങ്ങൾ ഈ സമവാക്യം ഓർക്കണം അതിനാൽ ഡെൽറ്റ എഫിലേക്ക് ഉള്ള ശബ്ദ വോൾട്ടേജ് 4 k B T R ന്റെ റൂട്ടിന് തുല്യമാണ് ഇവിടെ ഒരു റെസിസ്റ്ററിൽ നിന്നുള്ള ശബ്ദം അതിന്റെ പ്രതിരോധത്തിനും താപനിലയ്ക്കും ആനുപാതികമാണ് പ്രതിരോധ മൂല്യങ്ങൾ കുറയ്ക്കുന്നതു താപ ശബ്ദം കുറയ്ക്കുന്നു അതിനാൽ താപ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് കാരിയറുകളുടെ ചലനം സൃഷ്ടിച്ച ശബ്ദമാണ് രണ്ടാമത്തേത് നമ്മൾ ചൂട് കൂടുതൽ വർദ്ധിപ്പിക്കുകയോ താപനില കൂട്ടുകയോ ചെയ്താൽ ശബ്ദം വർദ്ധിക്കും പ്രതിരോധ മൂല്യം കൂടുതലാണെങ്കിൽ ശബ്ദം വർദ്ധിക്കും റെസിസ്റ്റൻസ് മൂല്യം കുറയ്ക്കുന്നതിലൂടെ താപ ശബ്ദം കുറയും ഈ സമവാക്യം നിങ്ങൾ ഓർക്കണം ഇപ്പോൾ ഒരു താപ ശബ്ദത്തിന്റെ ഉദാഹരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനാൽ 1 ഹെർട്സ് ബാൻഡ്വിഡ്ത്തിനും 50 ഓം ഇംപെൻഡൻസിനുമായി റൂം താപനിലയിൽ താപ ശബ്ദം കണക്കാക്കുന്ന ഒരു ഉദാഹരണം നൽകിയാൽ എങ്ങനെ ചെയ്യും ഇതാണ് നമ്മൾക്ക് നൽകിയ പ്രശ്നം അതിനാൽ നമുക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താമെന്ന് നോക്കാം താപ ശബ്ദ വോൾട്ടേജ് V നൽകുന്നത് 4 k B T R ന്റെ റൂട്ടിന് തുല്യമാണെന്ന് നമ്മൾക്കറിയാം ഇവിടെ k ബോഹെമിയൻ സ്ഥിരാങ്കമാണ് T300 കെൽവിൻ B1 ഹെർട്സ് R50 ഓം ശരിയാണ് ഇത് ശരിയായി നൽകിയിട്ടുണ്ട് B1 ഹെർട്സ് നൽകി R50 ഓം നൽകി ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ എന്താണെന്ന് നമ്മൾ അറിയണം റൂം താപനില 27 ഡിഗ്രിയായി നമ്മൾ കണക്കാക്കുന്നു അതിനാൽ 300 കെൽവിൻ ആണ് അതിന്റെ റൂട്ടിന് കീഴിലാണ് മുഴുവൻ ശരി ഇതുപോലുള്ള ഈ ചിഹ്നം നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല നിങ്ങൾ റൂട്ടിന് കീഴിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള റൂട്ടിന് കീഴിലോ എഴുതുകയും x y z മൂല്യം എഴുതുകയും ചെയ്താൽ അത് x y z ന് തുല്യമാണെന്ന് കരുതുന്നു അതിനാൽ ഈ ചിഹ്നം ഇവിടെ കാണുമ്പോൾ ഇത് റൂട്ടിന് കീഴിലാണ് അതിനാൽ 4 ന്റെ റൂട്ടിന് കീഴിൽ 4k x ബോൾട്ട്സ്മാൻ സ്ഥിരാംഗം x താപനില Kelvinൽ x ബാൻഡ്വിഡ്ത്ത് പ്രതിരോധം അതിനാൽ ഞാൻ ഈ മൂല്യങ്ങൾ എഴുതിയാൽ ഇത് പ്രയോഗിച്ചാൽ എനിക്ക് 0 455 ശബ്ദ വോൾട്ടേജ് കണ്ടെത്താൻ കഴിയും അത് ഒരു താപ ശബ്ദമാണ് ഈ പ്രത്യേക പ്രശ്നത്തിൽ ശരി അതിനാൽ ഇത് തെർമൽ നോയിസിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഷോട്ട് നോയ്സ് എന്ന മറ്റൊരു ശബ്ദം നമുക്ക് നോക്കാം അതിനാൽ ഷോട്ട് ശബ്ദമെന്താണ് ഷോട്ട് ശബ്ദത്തിന്റെ പേര് ഷോട്ട്കി നോയ്സ് ക്വാണ്ടം നോയ്സ് എന്നും വിളിക്കുന്നു അതിനാൽ ഷോട്ട് ശബ്ദത്തെ ഷോട്ട്കി നോയിസ് എന്നും ഷോട്ട് ഫോം ശബ്ദത്തെ ക്വാണ്ടം നോയിസ് എന്നും വിളിക്കുന്നു ഒരു കണ്ടക്ടറിലെ കാരിയർ ചാർജ് ചെയ്ത കാരിയറുകളുടെ ചലനത്തിലെ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലുകളാണ് ഇത്ൽ സംഭവിക്കുന്നത് ജംഗ്ഷനിൽ സാധ്യതയുള്ള ശക്തി എൻ പി എന്നിവ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്ത കാരിയറുകളുടെ ചലനത്തിൽ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും കണ്ടക്ടർ ചാർജ് കാരിയറുകളുടെ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിൽ N ലെ ഇലക്ട്രോണുകളാണ് പി ദ്വാരങ്ങളാണ് അതിനാൽ ചലനത്തിലെ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോൾ ഇത് ഷോട്ട് ശബ്ദത്തിന് കാരണമാകും ഷോട്ട് ശബ്ദം എല്ലായ്പ്പോഴും നിലവിലെ ഫ്ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിലവിലെ ഫ്ലോ നിർത്തുമ്പോൾ അത് നിർത്തുന്നു അതിനാൽ നിലവിൽ കറൻറ് നമ്മൾ പ്രയോഗിക്കാത്തപ്പോൾ പോലും അത് താപ നോയ്സ് പോലെയല്ല ഇത് ഒരു താപ നോയ്സ് താപനിലയ്ക്ക് ആനുപാതികമാണ് പക്ഷേ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ മാത്രമേ ഷോട്ട് ശബ്ദം പ്രാബല്യത്തിൽ വരികയുള്ളൂ ഷോട്ട് ശബ്ദം താപനില ഷോട്ട് ശബ്ദത്തിൽ നിന്ന് വിഭിന്നമാണ് അല്ലെങ്കിൽ സ്പെക്ട്രലി പരന്നതാണ് അല്ലെങ്കിൽ ഒരു ഏകീകൃത പവർ ഡെൻസിറ്റി ഉണ്ട് അതായത് ഫ്രീക്വൻസിക്ക് എതിരായി പ്ലോട്ട് ചെയ്യുമ്പോൾ അതിന് സ്ഥിരമായ മൂല്യമുണ്ട് അതിനാൽ നിങ്ങൾ ആവൃത്തിക്കെതിരെ ഒരു ഷോട്ട് ശബ്ദം പ്ലോട്ട് ചെയ്യുമ്പോൾ അതിന് സ്ഥിരമായ ഒരു മൂല്യമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അടുത്തത് ഷോട്ട് ശബ്ദം കണ്ടക്ടറിലും ഉണ്ട് അതിനാൽ ഇത് വളരെ പ്രധാനമാണ് അടുത്തത് നമുക്ക് കാണാനാകുന്നത് നമ്മുടെ ഫ്ലിക്കർ ശബ്ദമാണ് തുടർന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം നമ്മൾ കാണും അതിനാൽ എന്താണ് ഫ്ലിക്കർ ശബ്ദം ഒരു ഫ്ലിക്കർ ശബ്ദമാണ് ഫ്ലിക്കർ ശബ്ദത്തെ 1 f ശബ്ദം എന്നും വിളിക്കുന്നു നമുക്ക് അറിയാത്ത ഭൌതികശാസ്ത്രത്തിലെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും പഴയ പ്രശ്നമാണ് അതിന്റെ ഉത്ഭവം സജീവവും നിഷ്ക്രിയവുമായ എല്ലാ ഘടകങ്ങളിലും ഇത് നിലവിലുണ്ട് അർദ്ധചാലകങ്ങളുടെ ക്രിസ്റ്റൽ ഘടനയിലെ അപൂർണ്ണതയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കാം കാരണം മെച്ചപ്പെട്ട പ്രോസസ്സിംഗ് അത് കുറയ്ക്കും അതിനാൽ എന്താണ് ക്രിസ്റ്റൽ ഘടന എന്ന് നമ്മൾ കാണുമ്പോൾ ക്രിസ്റ്റൽ ഘടന നമ്മൾ കണ്ട 100 സിലിക്കണിൽ പറയട്ടെ ഇത് ഒരു ഓറിയന്റേഷൻ ക്രിസ്റ്റലിൻ ഘടനയാണ് എന്നാൽ ക്രിസ്റ്റൽ ഘടനയിൽ അപൂർണതകൾ ഉണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഘടനകൾ എങ്ങനെ ആയിരിക്കും അത് നമുക്ക് അറിയില്ലായിരിക്കാം പക്ഷേ ഇത് ഒരു സിദ്ധാന്തം മാത്രമാണ് ഇത് ഫ്ലിക്കർ ശബ്ദത്തിന്റെ ഉത്പാദനത്തിന് കാരണമായേക്കാം പക്ഷേ ക്രിസ്റ്റൽ ഘടനയോ ക്രിസ്റ്റൽ ഘടനയിലെ അപൂർണ്ണതയോ കുറച്ചുകൊണ്ട് മെറ്റീരിയൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രോസസ് ചെയ്യുന്നത് ഫ്ലിക്കർ ശബ്ദം കുറയ്ക്കും ഇതാണ് നമ്മൾ അനുമാനിക്കുന്നത് അതിനാൽ ഫ്ലിക്കർ ശബ്ദത്തിന്റെ ചില സവിശേഷതകൾ എന്തൊക്കെയാണ് അതിനാൽ ഫ്ലിക്കർ ശബ്ദം വർദ്ധിപ്പിക്കുന്നത് ആവൃത്തി ശരിയായി കുറയുന്നു കാണുക കാരണം നമ്മൾ കണ്ടെത്തിയത് ആവൃത്തി വർദ്ധിപ്പിക്കുമ്പോഴാണ് ഫ്ലിക്കർ ശബ്ദം കുറയുന്നത് അതിനാലാണ് ഇതിൻറെ പേര് 1f എന്നു നൽകിയിരിക്കുന്നത് 1f ഇവിടെ കാണുന്നത് പോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ഡിസി കറന്റുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന് ഒരു ഒക്റ്റേവിലോ ഓരോ ഒക്ടേവിലോ ഡെക്കാഡറൈറ്റിലോ പവർ ഉണ്ട് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം അടുത്തതായി നമുക്ക് നോക്കാം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം എന്താണ് രണ്ടോ അതിലധികമോ ലെവലുകൾക്കിടയിലുള്ള സംക്രമണം പോലുള്ള പെട്ടെന്നുള്ള ഘട്ടം ബർസ്റ്റ് ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്നു ഇത് അർദ്ധചാലക വസ്തുക്കളിലെ അപൂർണ്ണതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ കനത്ത അയോൺ ഇംപ്ലാന്റുകളുമുണ്ട് നിങ്ങൾ കാണുന്ന ഒരു കനത്ത അയോൺ ഇംപ്ലാന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ നൂറുകണക്കിന് മൈക്രോ വോൾട്ടുകൾ നിരവധി മില്ലിസെക്കൻഡുകൾ വരെ നീണ്ടുനിൽക്കുന്ന ഒരു പൊട്ടിത്തെറിയുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും ബർസ്റ്റ് ശബ്ദം 100 ഹെർട്സിന് താഴെയുള്ള നിരക്കിൽ ഒരു പോപ്പിംഗ് ശബ്ദം ഉണ്ടാക്കുന്നു അതിനാലാണ് ഇത് പൊട്ടിത്തെറിക്കുന്നതായി തോന്നുന്നത് ഒരു സ്പീക്കറിലൂടെ പ്ലേ ചെയ്യുന്നത് പോപ്കോൺ പോപ്പിംഗ് പോലെ തോന്നിക്കുന്നു അതിനാൽ പോപ്കോൺ ശബ്ദം എന്നും ഇതിനെ വിളിക്കുന്നു അതിനാൽ ഇത് അപൂർണ്ണമായ അർദ്ധചാലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന് കനത്ത അയോൺ ഇംപ്ലാന്റുകൾ ഉണ്ട് പരിവർത്തനം പോലുള്ള പെട്ടെന്നുള്ള നടപടിയാണിത് വോൾട്ടേജ് 100 മൈക്രോ വോൾട്ടുകൾ വരെ ഉയർന്നതാണ് അത് നിരവധി മില്ലിസെക്കൻഡുകൾ വരെ നീണ്ടുനിൽക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു സ്പീക്കറുമായി ബന്ധിപ്പിക്കുമ്പോൾ 100 ഹെർട്സ് ആവൃത്തിയിൽ 100 ഹെർട്സിന് താഴെയുള്ള നിരക്കിൽ ഒരു പോപ്പിംഗ് ശബ്ദം നിങ്ങൾ കേൾക്കും പോപ്കോൺ പോപ്പിംഗിന് സമാനമായ ശബ്ദം കാരണം ഇതിനെ പോപ്കോൺ ശബ്ദം എന്നും വിളിക്കുന്നു ശുദ്ധമായ ഉപകരണ പ്രോസസ്സിംഗ് ഉപയോഗിച്ചാണ് കുറഞ്ഞ പൊട്ടിത്തെറി ശബ്ദം കൈവരിക്കുന്നത് അതിനാൽ ഡിസൈനിന്റെ നിയന്ത്രണത്തിന് അതീതമാണ് ബർസ്റ്റ് ശബ്ദം ഇപ്പോൾ നിങ്ങളുടെ ഹിമപാത ശബ്ദമായ ഒരുതരം ശബ്ദം കൂടി നമുക്ക് നോക്കാം അതിനാൽ എന്താണ് ഹിമപാത ശബ്ദം റിവേഴ്സ് ബ്രേക്ക്ഡൌൺ മോഡലിൽ ഒരു പിഎൻ ജംഗ്ഷൻ പ്രവർത്തിക്കുമ്പോഴാണ് ഹിമപാത ശബ്ദം സൃഷ്ടിക്കുന്നത് എപ്പോഴാണ് റിവേഴ്സ് ബ്രേക്ക്ഡൌൺ മോഡലിൽ പ്രവർത്തിക്കുന്നത് അതിനാൽ ജംഗ്ഷൻ ഡിപ്ലിഷൻ മേഖലയിൽ ശക്തമായ റിവേഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്വാധീനത്തിൽ എന്ത് സംഭവിക്കുന്നു ഇലക്ട്രോണുകൾക്ക് ആവശ്യമായ ഗതികോർജ്ജമുണ്ട് അവ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ആറ്റങ്ങളുമായി കൂട്ടിയിടിച്ച് അധിക ഇലക്ട്രോൺ ജോഡിയായി മാറുന്നു പ്രദേശം കുറയുമ്പോൾ ഇലക്ട്രോണിന് ആവശ്യമായ ഗതികോർജ്ജവും ക്രിസ്റ്റലുകളുമായി കൂട്ടിയിടിക്കുന്നതും കാണാം ഇത് ഇവിടെ ക്രിസ്റ്റലുകളുമായി കൂട്ടിയിടിക്കുന്നുവെന്നും ഇത് കൂടുതൽ ഇലക്ട്രോണുകളെ വലിച്ചിഴച്ച് അധിക ഇലക്ട്രോൺ ഹോൾ ജോഡിയാക്കുന്നു ഈ കൂട്ടിയിടികൾ പൂർണ്ണമായും ക്രമരഹിതവും ഷോട്ട് ശബ്ദത്തിന് സമാനമായ റാൻഡം കറന്റ് പൾസുകളും ഉൽപാദിപ്പിക്കുന്നു പക്ഷേ കൂടുതൽ എന്നതിനേക്കാളുപരി തീവ്രമായ എന്നു പറയണം വിപരീത പക്ഷപാത ജംഗ്ഷന്റെ അപചയ മേഖലയിലെ ഇലക്ട്രോണുകളും ദ്വാരങ്ങളും ഹിമപാതത്തിന് കാരണമാകുന്നത്ര ഊർജ്ജം നേടുമ്പോൾ വലിയ ശബ്ദ സ്പൈക്കുകളുടെ ക്രമരഹിതമായ ശ്രേണി സൃഷ്ടിക്കപ്പെടും മെറ്റീരിയലിനെ ആശ്രയിക്കുന്നതിനാൽ ശബ്ദത്തിന്റെ വ്യാപ്തി പ്രവചിക്കാൻ പ്രയാസമാണ് അതിനാൽ നമ്മൾ കണ്ടെത്തിയവ കൂടുതലോ കുറവോ എന്ന് നിങ്ങൾ കാണുന്നു അതായത് കൂടുതലോ കുറവോ അത് അർദ്ധചാലക വസ്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് മെറ്റീരിയലിന്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും നമ്മൾ കണ്ട താപ ശബ്ദം നോക്കുകയാണെങ്കിൽ അത് താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു അടുത്തതായി നമ്മൾ ഷോട്ട് ശബ്ദം കണ്ടു പൊട്ടിത്തെറിക്കുന്ന ശബ്ദം നമ്മൾ കണ്ടു പോപ്കോൺ ശബ്ദം നമ്മൾ കണ്ടു ഹിമപാതത്തിന്റെ ശബ്ദം നമ്മൾ കണ്ടു അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ അവസാനമായിരിക്കും ഇത് നമ്മളുടെ പ്രഭാഷണ നമ്പർ 12 ഓസിലേറ്ററുകളും ശബ്ദവും ആയിരുന്നു ഇപ്പോൾ ശബ്ദത്തിന്റെ തരങ്ങൾ എന്താണെന്ന് ശരിയായി വായിച്ചുകഴിഞ്ഞാൽ ഈ ശബ്ദങ്ങൾ എവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ മനസിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട്ൽ ഒരു ശബ്ദമുണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്താം നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തു നോക്കുക ശബ്ദം എങ്ങനെ ശരിയായി സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് സ്വയം മനസിലാക്കുക അതിനാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഡാറ്റ ഷീറ്റ് വേഗത്തിൽ കാണും ഡാറ്റാ ഷീറ്റിലെ ചില പാരാമീറ്ററുകൾ നമ്മൾ കാണും ഈ മുഴുവൻ കോഴ്സിൽ കുറച്ച് പാരാമീറ്ററുകൾ ഇതിനകം ചർച്ചചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഡാറ്റാ ഷീറ്റിൽ തുറക്കുമ്പോൾ നിങ്ങൾ അത് കണ്ടെത്തും മറ്റ് ചില അധിക പാരാമീറ്ററുകൾ നമ്മൾ ചർച്ച ചെയ്യും തുടർന്ന് നമ്മൾ ഒരു അവസാന പ്രഭാഷണം നടത്തും അതിൽ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം ഉൾക്കൊള്ളും പക്ഷേ അൽപ്പം വേഗത്തിലുള്ള മോഡിൽ ആയിരിക്കുമെന്ന് മാത്രം അതിനാൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം നിങ്ങൾ ഓർമ്മിക്കണം അതിനുശേഷം നമ്മൾക്ക് പരീക്ഷണ ക്ലാസുകൾ ഉണ്ടാകും അവിടെ ബ്രെഡ്ബോർഡിൽ സർക്യൂട്ട് എങ്ങനെ നടപ്പാക്കാമെന്നും സർക്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് സിമുലിങ്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഞാൻ കാണിച്ചുതരാം വോൾട്ടേജ് പ്രയോഗിക്കുന്നതിന് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ഘടകങ്ങൾ ശേഖരിക്കുമെന്ന് നിങ്ങൾക്കു മനസ്സിലാകും ഒരു സർക്യൂട്ട് രൂപീകരിക്കുന്നതിന് നമ്മൾ ഈ ഘടകങ്ങൾ അറ്റാച്ചുചെയ്യും നമ്മൾ ഒരു സിഗ്നൽ പ്രയോഗിക്കും കൂടാതെ സിമുലിങ്കിലെ ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് outputലെ മാറ്റം എന്താണെന്ന് നിങ്ങൾ കാണും ഇത് വെറും സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഓസിലോസ്കോപ്പ് ഫ്രീക്വൻസി ജനറേറ്റർ ഡിസി പവർ സപ്ലൈ എന്നിവ ബ്രെഡ്ബോർഡിൽ ഉപയോഗിച്ച് നമ്മൾ സമാനമായ പഠനം നടത്തും നമ്മൾ മൂന്ന് ഉപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയറുമായി ബന്ധപ്പെട്ട നിരവധി തരം സർക്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്യും അതിനാൽ അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പ്രത്യേക പ്രഭാഷണം വായിക്കുക അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ കാണും